ഇനി നമ്മൾ വിവിധ തരം പേറ്റന്റ് അപേക്ഷകളെ കുറിച്ച് പഠിക്കുന്നു ആദ്യത്തേത് സാധാരണ അപേക്ഷയാണ് ഓർഡിനറി അപ്ലിക്കേഷൻ ഓർഡിനറി അപ്ലിക്കേഷൻ എന്നത് പേറ്റന്റ് അവകാശങ്ങൾ അനുവദിച്ചുകിട്ടുന്നതിനായി ഇന്ത്യയുടെ പേറ്റന്റ് ഓഫീസിൽ സമർപ്പിക്കുന്ന അപേക്ഷയാണ് ഈ അപേക്ഷയിലുടെ പേറ്റന്റുകൾ ഇന്ത്യയിൽ മാത്രം പ്രയോഗത്തിൽ വരുത്തുന്നതിനുള്ള അനുമതിയാണ് ലഭിക്കുക ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇത് സ്വദേശിയമായ അല്ലെങ്കിൽ പ്രാദേശികമായ അപേക്ഷയാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഒരു സാധാരണ അപേക്ഷയാണ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ അതുമൂലം അനുവദിച്ചു കിട്ടുന്ന അവകാശം ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ മാത്രം നടപ്പിൽ വരുത്താവുന്നതാണ് ഇതിനെ നമ്മൾ ഡിഫോൾട്ട് അപ്ലിക്കേഷൻ എന്ന് പറയും അതൊരു സാധാരണ അപേക്ഷയാണ് ഈ വിധത്തിൽ സമർപ്പിക്കുന്ന ഒരു സാധാരണ അപേക്ഷയിലൂടെ അനുവദിച്ചു കിട്ടുന്ന അവകാശം ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ മാത്രമേ നടപ്പിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ തന്നെ നമുക്ക് കൺവെൻഷൻ ആപ്ലിക്കേഷനും ഫയൽ ചെയ്യാവുന്നതാണ് കൺവെൻഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഒരു അപേക്ഷയാണ് അതിലൂടെ ഇന്ത്യൻ പേറ്റന്റ് ആക്ട് അനുസരിച്ചുള്ള നടപടി ചട്ടങ്ങളാണ് നിലവിൽ വരുന്നത് കൺവെൻഷൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാരീസ് കൺവെൻഷനിൽ ഒപ്പുവച്ച ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യൻ പൌരനായ നിങ്ങൾക്ക് ഒരു വിദേശരാജ്യത്ത് അപേക്ഷ ഫയൽ ചെയ്യുവാനും അതേസമയം ഒരു അപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഫയൽ ചെയ്തുകൊണ്ട് വിദേശ രാജ്യത്ത് ഫയൽചെയ്ത അപേക്ഷയിന്മേൽ പ്രയോറിറ്റി അവകാശപ്പെടാനും സാധിക്കും ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്ന വിദേശ രാജ്യവും പാരിസ് കൺവെൻഷനിൽ ഒപ്പുവച്ചിട്ടുള്ള രാജ്യം ആയിരിക്കണം ഇതൊരു ക്രമീകരണമാണ് പാരിസ് കൺവെൻഷൻറെ അംഗരാജ്യമായ ഒരു വിദേശരാജ്യത്ത് നിങ്ങൾക്ക് അപേക്ഷ ഫയൽ ചെയ്യുവാനും അതിൻറെ തുടർനടപടികൾ എന്ന നിലയ്ക്ക് ഇന്ത്യയിലും 12 മാസത്തിനുള്ളിൽ അതേ കണ്ടുപിടിത്തത്തിന് ഒരു അപേക്ഷ ഫയൽ ചെയ്യുവാനും സാധിക്കുന്നു ഒരേ കണ്ടുപിടിത്തത്തിന് പല അധികാരപരിധിയിലുള്ള ഓഫീസുകളിൽ അതായത് പല രാജ്യങ്ങളിൽ അപേക്ഷ ഫയൽ ചെയ്യുന്നതിന് ഒരു സമയപരിധി അനുവദിക്കുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 12 മാസം ഇതാണ് കൺവെൻഷൻ ആപ്ലിക്കേഷൻ അത് മറ്റൊന്നുമല്ല ഇന്ത്യയിൽ നൽകുന്ന ഒരു തുടർ അപേക്ഷയാണിത് ഇന്ത്യയിൽ നൽകാവുന്ന മൂന്നാമതൊരു തരം അപേക്ഷയാണ് പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി പ്രകാരം ഉള്ള പി സി ടി ഇന്റർ നാഷണൽ അപ്ലിക്കേഷൻ കൺവെൻഷൻ ആപ്ലിക്കേഷനുകളുടെ സമാനമായ രീതിയിലാണ് ഇതിൻറെ പ്രവർത്തനവും കാരണം ഇന്ത്യ ഒരു പി സി ടി അംഗ രാഷ്ട്രമാണ് ഇന്ത്യയിൽ പി സി ടി ഓഫീസ് ഉണ്ട് ഇന്ത്യയ്ക്ക് ഇന്റർനാഷണൽ പിസിടി ആപ്ലിക്കേഷൻ സ്വീകരിക്കാവുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോ യൂറോപ്യൻ യൂണിയനിലോ ഒക്കെ ഒരു ഇൻറർനാഷണൽ പിസിടി അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് വളരെ അന്തരമുള്ളതാണ് ഇന്ത്യയിൽ പി സി ടി യുടെ പ്രദേശികമായ അപേക്ഷ ഫയൽ ചെയ്യാവുന്നതാണെന്ന് തൊട്ടുമുൻപു നമ്മൾ കണ്ടു പി സി ടി ഇൻറർനാഷണൽ അപ്ലിക്കേഷൻ എന്നത് ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ഒരു കവാടമാണ് അതായത് ഈ അപേക്ഷക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കഴിവും നൽകുന്നു നിങ്ങൾ ഏതൊക്കെ വിദേശരാജ്യങ്ങളിൽ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരേ ഒരു കാര്യം എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ ആപ്ലിക്കേഷൻ വ്യക്തിപരമായി മുന്നോട്ടു കൊണ്ടുപോകണം പി സി ടി ഇൻറർനാഷണൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനാനുമതി നൽകുന്നു വിവിധ രാജ്യങ്ങൾ എന്നുപറയുമ്പോൾ അവ പേറ്റന്റ് കോഓപ്പറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ആയിരിക്കണം അതേസമയം പിസിടി യുടെ ദേശീയമായ ഘട്ടം എന്ന് പറയുന്നത് അത് പിസിടി റൂട്ടിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഫയൽ ചെയ്യാനുള്ള ഒരു അനുമതിയാണ് നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫയൽ ചെയ്തു 12 മാസങ്ങൾക്കുള്ളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പേറ്റൻറ് ഓഫീസിനെ പി സി ടി ഓഫീസ് ആക്കി കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ പി സി ടി യുടെ കീഴിലുള്ള നിങ്ങളുടെ ഇൻറർനാഷണൽ ആപ്ലിക്കേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആരംഭിക്കുന്നു അതിനുശേഷം അനുവദിച്ചു തന്നിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുക പി സി ടി ഇൻറർനാഷണൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉള്ള നിങ്ങളുടെ പ്രയോറിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ചെയ്യുക അങ്ങനെയാകുമ്പോൾ തുടർ നടപടി ക്രമങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്നു പി സി ടി റൂട്ടിലൂടെ തുടർ നടപടി ക്രമങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നതിനെയാണ് നമ്മൾ പി സി ടി നാഷണൽ ഫേസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് ദേശീയ ഘട്ടം ആണ് അല്ലെങ്കിൽ പി സി ടി ആപ്ലിക്കേഷൻറെ തുടർ നടപടികൾ ആണ് അതുപ്രകാരം നിങ്ങൾ ഇൻറർനാഷണൽ ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കുന്ന പ്രയോറിറ്റി ഡേറ്റ് മുതൽ 30 മാസത്തിനുള്ളിൽ ഇന്ത്യൻ ഫെയ്സിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അങ്ങനെയാകുമ്പോൾ ഈ ഇന്ത്യൻ ഫെയ്സ് ആപ്ലിക്കേഷൻ ഇവിടെ ഒരു അനുമതിയായി മാറും ഇതാണ് നാലാമതൊരു തരം ആപ്ലിക്കേഷൻ അടുത്തത് അഞ്ചാമതൊരു രീതിയുണ്ട് അതിനെ നമ്മൾ അപ്ലിക്കേഷൻ ഫോർ എ പേറ്റൻറ് ഓഫ് അഡീഷൻ എന്ന് വിളിക്കും നിങ്ങൾക്ക് ഒരു കണ്ടുപിടിത്തം കയ്യിലുണ്ട് അതിന് അനുമതി ലഭിക്കുകയും അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കണ്ടു പിടിത്തത്തിന്മേൽ എന്തെങ്കിലും പുരോഗതിയോ വ്യത്യാസമോ വരുത്തിയിരിക്കുന്നു അങ്ങനെ വരുത്തിയ പുരോഗതിയും വ്യത്യാസവും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് പേറ്റന്റ് ഓഫ് അഡീഷൻ ഇക്കാര്യത്തിനായി ഒരു പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇതൊരു നിലനിൽക്കുന്ന കണ്ടുപിടുത്തത്തിന്മേലുള്ള പുരോഗതിയോ വ്യതിയാനമോ മാത്രമാണ് പേറ്റന്റ് അഡീഷൻ പുരോഗതികളെയും വ്യതിയാനങ്ങളെയും കൂടി ഉൾപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു പേറ്റന്റ് ഓഫ് അഡീഷൻ മുൻപു നടത്തിയിട്ടുള്ള കണ്ടുപിടിത്തത്തിൻറെ കൂടെയാണ് പ്രവർത്തിക്കുന്നത് ആ കണ്ടുപിടുത്തത്തെ നമ്മൾ പ്രധാനപ്പെട്ട കണ്ടുപിടിത്തം എന്തു പറയുന്നു ഈ പ്രധാനപ്പെട്ട കണ്ടുപിടിത്തത്തിൻറെ കാലാവധി പൂർത്തിയാകുമ്പോൾ അതിൻറെ കൂടെ പേറ്റന്റ് ഓഫ് അഡീഷന്റെ കാലാവധി കൂടി പൂർത്തിയാകുന്നു പറഞ്ഞുവരുന്നത് ഇത്രയുമാണ് പേറ്റന്റ് ഓഫ് അഡീഷൻ മറ്റൊന്നുമല്ല പ്രധാനപ്പെട്ട കണ്ടുപിടുത്തത്തിൻറെ കൂടെ പ്രവർത്തനനിരതമാകുന്ന ഒരു സംഗതിയാണിത് പ്രധാന കണ്ടുപിടുത്തത്തിനു ശേഷം പിന്നീട് ഒരു സമയത്ത് ഉണ്ടായ പ്രധാന കണ്ടുപിടുത്തത്തിൻറെ പുരോഗതിക്ക് കാരണമായ വ്യതിയാനങ്ങൾ നിലനിൽക്കുന്ന ആ പ്രധാന കണ്ടുപിടുത്തത്തോടെ കൂടെ ചേർക്കാനും അവ ഒന്നിച്ച് നിലനിൽക്കാനും അനുവദിക്കുകയാണിവിടെ ഇതാണ് അഞ്ചാമത്തെ വിധത്തിലുള്ള അപേക്ഷ ഇനി ആറാമതൊരു തരം അപേക്ഷയുണ്ട് അതിനെ നമ്മൾ ഡിവിഷനിൽ അപ്ലിക്കേഷൻ എന്ന് വിളിക്കും ഡിവിഷനൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് സാധാരണയായി ഒരു കണ്ടുപിടുത്തത്തെ വിഭജിക്കുന്നതിനായിട്ടാണ് നിയമം പറയുന്നത് ഓരോ അപ്ലിക്കേഷനും ഒരു കണ്ടുപിടുത്തം മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ കണ്ടുപിടിത്തങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വമനസ്സാ ഓരോ കണ്ടുപിടുത്തത്തിനും വ്യത്യസ്തമായ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ് അല്ലെങ്കിൽ പേറ്റന്റ് കൺട്രോളർ നിങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെടും പേറ്റന്റ് ഓഫീസ് നിങ്ങളോട് പറയും ഇതിൽ ഒന്നിൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ട് എന്ന് ഇതിനെ നമ്മൾ യൂണിറ്റി ഓഫ് ഇൻവെൻഷൻ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു കണ്ടുപിടുത്തത്തിനു ഒരു ആപ്ലിക്കേഷനാണ് ഫയൽ ചെയ്യാൻ സാധിക്കുക കാര്യം ഇത്രയുമാണ് പേറ്റന്റ് ഓഫീസ് നിങ്ങളോട് പറയും നിങ്ങൾ തന്നിരിക്കുന്ന അപേക്ഷയിൽ ഒന്നിൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ട് അതുകൊണ്ട് വിഭജിച്ചു ഒരു കണ്ടുപിടുത്തത്തിന് ഒരു അപേക്ഷ എന്ന നിലയിൽ സമർപ്പിക്കണം എന്ന് അപ്പോൾ കണ്ടുപിടുത്തം വിഭജിക്കുന്നതിനായി ആപ്ലിക്കേഷൻ വിഭജിക്കണം അത് ചെയ്യുന്നത് ഡിവിഷനൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചുകൊണ്ടാണ്